പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സിന് ഉപയോഗിക്കുന്ന വിവിധ സ്പെസിമെനുകൾ നമ്മൾ നോക്കുകയായിരുന്നു കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ നമ്മൾ കണ്ടു തുടർന്ന് നമ്മൾ മൂന്ന് പോയിന്റ് ബെൻഡ് സ്പെസിമെനുകളിലേക്ക് നീങ്ങി ടെസ്റ്റിനുള്ള സ്പെസിമെൻ ഞാൻ പറഞ്ഞു ഇത് വളരെ ജനപ്രിയമായ ഒരു സ്പെസിമെൻ ആണെന്ന് കാരണം പ്രധാനമായും ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ലളിതം ആണ് കൂടാതെ ഒരു മെഷീനിൽ ലോഡുചെയ്യുന്നതിനുള്ള ലോഡിംഗ് ഫിക്സ്ച്ചറുകൾ പോലും നിർമ്മിക്കുന്നത് എളുപ്പമാണ് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറിന്റെ മൂല്യവും നമ്മൾ പരിശോധിച്ചു തുടർന്ന് നമ്മൾ ഉപയോഗിച്ച മറ്റ് സ്പെസിമെനുകളിലേക്ക് നീങ്ങി ഇതിന്റെ ഒരു ദ്വിമാന രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു സി സ്പെസിമെൻ ആണ് ഇത് ട്യൂബുകളുടെ ഫ്രാക്ചർ ടഫ്നെസ്സ് പരിശോധിക്കുന്നതിന് ഉപയോഗപ്രദമാണ് ട്യൂബിൽ നിന്ന് ഒരു സ്പെസിമെൻ എടുക്കാൻ നിങ്ങൾക്ക് സൌകര്യപ്രദമാണ് നിങ്ങൾക്ക് ഈ അരികിൽ നിന്ന് അളക്കുന്ന ക്രാക്ക് ലെങ്ത് ഉണ്ട് അതാണ് ക്രാക്ക് ലെങ്ത് എന്ന് നൽകിയിരിക്കുന്നത് ഇതിനും നിങ്ങൾക്ക് SIF നായുള്ള ബൌണ്ടറി കൊളോക്കേഷൻ സൊല്യൂഷൻ ലഭ്യമാണ് നിങ്ങൾക്ക് ഡിസ്ക് ആകൃതിയിലുള്ള കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ എന്നറിയപ്പെടുന്ന മറ്റൊരു കൂട്ടം മാതൃകയും ഉണ്ട് ലോഡ് ആപ്ലിക്കേഷൻ പോയിന്റിൽ നിന്ന് ക്രാക്ക് ലെങ്ത് അളക്കുന്നു ഇതാണ് a യുടെ മൂല്യം ഒരു ടു ഡൈമെൻഷനൽ സ്കെച്ച് ഉണ്ടാക്കുക ഷാഫ്റ്റുകളുടെ ഫ്രാക്ചർ ടഫ്നെസ്സ് ടെസ്റ്റിംഗിന് ഈ സ്പെസിമെൻ ഉപയോഗപ്രദമാണ് ഈ എല്ലാ കേസുകളിലും സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ വിലയിരുത്തുന്നതിനുള്ള എക്സ്പ്രെഷനുകൾ നിങ്ങൾക്കുണ്ട് അതിനാൽ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ക്രിറ്റിക്കൽ ലോഡ് P യും ക്രിറ്റിക്കൽ ക്രാക്ക് ലെങ്തും അളക്കുകയും ചെയ്യും അതിനാൽ അതിനൊപ്പം സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയും എക്സ്പ്രെഷൻ ഇനിപ്പറയുന്ന രീതിയിൽ നൽകിയിരിക്കുന്നു ഇത് C സ്പെസിമെൻസിനുള്ളതാണ് ഇത് ഇപ്രകാരമാണ് KI ഈക്വൽ ടു P ബൈ B w പവർ ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ 3x ഡിവൈഡഡ് w നിങ്ങൾക്ക് ഇവിടെ x ദൂരം അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ലോഡ് ആപ്ലിക്കേഷൻ പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന ക്രാക്കിന്റെ ദൂരം പ്ലസ് 1 9 പ്ലസ് 1 1 ആൽഫ ഇവിടെ ആൽഫ എന്നത് a ബൈ w അനുപാതമാണ് മുഴുവനും 1 പ്ലസ് 0 25 ഗുണം 1 മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ ഗുണം 1 മൈനസ് r1 ബൈ r2 അപ്പോൾ നിങ്ങൾക്ക് a ഫാക്ടർ ആൽഫ പവർ ഹാഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ പവർ 3 ബൈ 2 ഗുണം 3 74 മൈനസ് 6 3 ആൽഫ പ്ലസ് 6 32 ആൽഫ സ്ക്വയേർഡ് മൈനസ് 2 43 ആൽഫ ക്യൂബും ഇത് C സ്പെസിമെൻസിനുള്ളതാണ് നിങ്ങൾക്ക് ഡിസ്ക് ആകൃതിയിലുള്ള സ്പെസിമെൻ KI ഈക്വൽ ടു P ബൈ B w പവർ ഹാഫ് ഗുണം 2 പ്ലസ് ആൽഫ ഗുണം 0 76 പ്ലസ് 4 8 ആൽഫ മൈനസ് 11 58 ആൽഫ സ്ക്വയേർഡ് പ്ലസ് 11 43 ആൽഫ ക്യൂബ് മൈനസ് 4 08 ആൽഫ പവർ 4 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഹോൾ പവർ 3 ബൈ 2 അതിനാൽ നിങ്ങൾക്ക് C സ്പെസിമെൻ DCT സ്പെസിമെൻ എന്നിവയ്ക്കുള്ള എക്സ്പ്രഷനുകൾ ഉണ്ട് സ്പെസിമെൻ ഡൈമെൻഷനുകളിലെ കൺസ്ട്രൈൻസ് കൂടാതെ സ്പെസിമെൻ ഡൈമെൻഷനുകളിലെ കൺസ്ട്രൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് സോണിന്റെ മോഡലിംഗ് ചർച്ച ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് സോൺ വലുപ്പം പരിഗണനയിൽ നിന്ന് നമ്മൾ അതും നോക്കി തിക്ക് നെസ്സ് B 2 5 മടങ്ങ് KIC ഡിവൈഡഡ് ബൈ സിഗ്മ ys ഹോൾ സ്ക്വയേർഡ്നെക്കളും വലുതാണ് ടെസ്റ്റിംഗിൽ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടിഷൻ നിലനിർത്താൻ ഈ അവസ്ഥ ആവശ്യമാണ് എന്താണ് മെറ്റീരിയൽ മാറുമ്പോൾ ഉണ്ടാകുന്ന സ്പെസിമെൻ തിക്നെസ്സ് എന്ന് ശ്രദ്ധിക്കുന്നത് രസകരമായിരിക്കും എനിക്ക് ഒരു അലുമിനിയം ഹൈ സ്ട്രെങ്ത് അലോയ് ഉണ്ടെന്ന് കരുതുക LEFM ബാധകമാകുന്നിടത്ത് അത് 15 മില്ലിമീറ്ററായിരിക്കും മറുവശത്ത് നിങ്ങൾ ഒരു ന്യൂക്ലിയർ ഗ്രേഡ് സ്റ്റീലിനായി പോയാൽ സ്പെസിമെൻ സൈസിൽ KIC സിഗ്മ ys എന്നിവയുടെ മൂല്യങ്ങൾ പകരം വച്ചാൽതിക്നെസ്സ് 1020 മില്ലിമീറ്ററാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിക്ക് സ്പെസിമെൻസിൽ ഇരിക്കാൻ കഴിയും അത്തരം ചിത്രങ്ങൾ ചില ലിറ്ററേച്ചറുകളിലും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്പെസിമെൻ തകർക്കാൻ ഒരു മെഷീൻ ഇല്ല ഇത് വളരെ കട്ടിയുള്ളതും തിക്ക് ആയതിനാലും അത് സാധ്യമല്ല അത്തരം സാഹചര്യങ്ങളിൽ LEFM ശരിക്കും ബാധകമല്ല അതിനാൽ ആളുകൾ ന്യൂക്ലിയർ ഗ്രേഡ് സ്റ്റീലിന് വേണ്ടി EPFM നായി പോയതിന്റെ കാരണമതാണ് നിങ്ങൾ പ്ലാസ്റ്റിക് സോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് 1020 മില്ലിമീറ്റർ സ്പെസിമെൻ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല KIC നിർണ്ണയിക്കുക സാധ്യമല്ല തുടർന്ന്നിങ്ങൾക്ക് ലിഗമെന്റിന്റെ സൈസ് എന്തായിരിക്കണമെന്നതിനെക്കുറിച്ചും പരിഗണന ആവശ്യമാണ് അതായത് എന്താണ് ലെങ്ത് w മൈനസ് a എന്ന് നിർദ്ദേശിക്കുന്നു w എന്തായിരിക്കണം എന്നും a എന്തായിരിക്കണം അത് നിർണ്ണയിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അതിനുള്ള ശുപാർശകൾ ഉണ്ട് വിഡ്ത്തിനായുള്ള ശുപാർശ ഇത് KIC ഗ്രെയ്റ്റർ ദാൻ ഓർ ഈക്വൽ 2 ടൈംസ് ഡിവൈഡഡ് ബൈ സിഗ്മ ys ഹോളി സ്ക്വായേർഡ് ആയിരിക്കണം W ഈ മൂല്യമുള്ളതാകാൻ കാരണം ലാറ്ററൽ ഫ്രീ സർഫേസിൽ നിന്ന് ക്രാക്ക് ടിപ്പിനെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് നിങ്ങൾക്കറിയാം SIF മൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിൽ ബാക്ക് ഫ്രീ സർഫേസ് കറക്ഷൻ ഫാക്ടർ ഫ്രണ്ട് ഫ്രീ സർഫേസ് കറക്ഷൻ ഫാക്ടർ എന്നിവ നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ നിങ്ങൾ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ലാറ്ററൽ ഫ്രീ സർഫേസ് അകലെയായിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ w ന്റെ മൂല്യം എന്തായിരിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ശുപാർശയുണ്ട് ക്രാക്ക് a യുടെ നീളം എന്താണ് എന്ന ഒരു ശുപാർശയും നിങ്ങൾക്ക് ഉണ്ട് 5 പോയിന്റ് ഗുണം KIC ഡിവൈഡഡ് ബൈ സിഗ്മ ys ഹോൾ സ്ക്വയേർഡിൽ കൂടുതലായിരിക്കണം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനായുള്ള എല്ലാ സ്റ്റാൻഡേർഡ് സ്പെസിമെനുകളിലും a ബൈ w ന്റെ മൂല്യം 0 45 മുതൽ 0 55 വരെയാണ് നിങ്ങൾ അത് പോലെ നിലനിർത്തുക അതിനാൽ നിങ്ങൾ നോൺ സ്റ്റാൻഡേർഡ് സ്പെസിമെനുകളിലേക്ക് പോകുകയാണെങ്കിൽ b എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നും a എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തിപരമായി വിഷമിക്കേണ്ടിവരും സ്റ്റാൻഡേർഡ് സ്പെസിമെനുകളുടെ കാര്യത്തിൽ സ്പെസിമെൻ ഡൈമെൻഷൻസ് അത് നോക്കികൊള്ളും പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വളരെ നീണ്ട ഒരു ക്രാക്ക് ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടത്ര നീണ്ട ക്രാക്ക് ഉണ്ടെങ്കിൽ ഫ്രാക്ചർ ഉണ്ടാകാൻ നിങ്ങൾക്ക് റീസണബിൾ ആയ ലോഡ് മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ഇത് നിങ്ങളുടെ ടെസ്റ്റിംഗ് രീതി ശാസ്ത്രത്തെയും ലളിതമാക്കുന്നു അതിനാൽനിങ്ങൾ ആ രീതിയിൽ ആണ് നോക്കേണ്ടത് നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു പട്ടികയുണ്ട് അത് സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്കുള്ള സാധുവായ KIC പരിശോധനകൾക്ക് ആവശ്യമായ തിക്ക് നെസ്സ് സംബന്ധിച്ച് ഒരു ആശയം നൽകുന്നു 3 വ്യത്യസ്ത വാല്യൂകൾക്കായി നിങ്ങൾ അത് എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യ നിരയിൽ നിങ്ങൾക്കുള്ളത് സ്റ്റീലിന്റെ യിൽഡ് സ്ട്രെങ്ത് രണ്ടാമത്തെ നിരയിൽ അലുമിനിയം മെറ്റീരിയൽ കാണിച്ചിരിക്കുന്നു യിൽഡ് സ്ട്രെങ്ത് കാണിച്ചിരിക്കുന്നു മൂന്നാമത്തെ നിരയിൽ KIC ടെസ്റ്റിന് ആവശ്യമായ തിക്ക് നെസ്സ് നൽകുന്നു അതിനാൽ എനിക്ക് സ്റ്റീലിന് 690 MPa യിൽഡ് സ്ട്രെങ്തും അല്ലെങ്കിൽ അലുമിനിയത്തിന് 275 MPa ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെസിമെൻ തിക്ക് നെസ്സ് 76 മില്ലിമീറ്ററിൽ കൂടുതലായിരിക്കണം എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് മറുവശത്ത് ഞാൻ ഹൈ സ്ട്രെങ്ത് അലോയ്കൾ നോക്കിയാൽ സ്റ്റീലിന്റെ കാര്യത്തിൽ അത് 1380 MPa അലുമിനിയത്തിന് 448 MPa ആണെങ്കിൽ തിക്നെസ്സ് 45 മില്ലിമീറ്റർ ആയിരിക്കും അതായത് അതിന്റെ ഏകദേശം മൂന്നിലൊന്ന് മറുവശത്ത് നിങ്ങൾ വളരെ ഹൈ സ്ട്രെങ്ത് അലോയ്കൾ നോക്കിയാൽ സ്റ്റീലിന്റെ യിൽഡ് സ്ട്രെങ്ത് 2070 യും അലുമിനിയത്തിന് 620 MPa യും ആണ് ഉള്ളത്നിങ്ങൾക്ക് വെറും 6 മില്ലിമീറ്റർ തിക്നെസ്സ് ഉള്ള ഒരു സ്പെസിമെൻ ആണ് ആവശ്യമായുള്ളത് 3 വ്യത്യസ്ത മൂല്യങ്ങൾക്കായി നിങ്ങൾ ഇത് എഴുതിയാൽ മതി ഇത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആശയം തിക്നെസ്സ് എങ്ങനെ വളരെ പ്രധാനമാകുന്നു എന്നതാണ് സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് തിക്നെസ്സ് കുറയുന്നു ഹൈ സ്ട്രെങ്ത് അലോയ്കൾക്ക് LEFM തികച്ചും ബാധകമാണ് ഷെവ്റോൺ നോച്ച് നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾക്ക് ഷെവ്റോൺ നോച്ചിന്റെ ഒരു ഡയഗ്രം ഉണ്ടെന്നത് കോഡ് നൽകുന്ന ചില നിയന്ത്രണങ്ങളുണ്ട് സ്ലോട്ട് വിഡ്ത് എന്തായിരിക്കണം സ്ലോട്ടിന്റെ ലെങ്ത് എന്തായിരിക്കണം ഫാറ്റീഗ് ക്രാക്കിന്റെ എക്സ്ടെൻഷൻ എന്തായിരിക്കണം ഇവയ്ക്കെല്ലാം നിങ്ങൾക്ക് റെക്കമെൻറ്റേഷൻസ് നൽകിയിട്ടുണ്ട് സാധാരണയായി ഷെവ്റോൺ നോച്ച് സ്പെസിമെൻ ഇതുപോലെ കാണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു വരയുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു വരയുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു വരയുണ്ട് കൂടാതെ 2 വരികളും ഇവിടെയുണ്ട് അവസാന ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ ഉപയോഗിച്ച് ഈ വരികൾ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നതിന്റെ ത്രിമാന ചിത്രം നൽകാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു സൂചനയുണ്ട് ഇവിടെയാണ് നമ്മൾ നിർത്തിയത് നിങ്ങളിൽ ആരെങ്കിലും ആ റിസൾട്ടുമായി വന്നിട്ടുണ്ടോ ഞാൻ കരുതുന്നത് കുറച്ച് പേർ നിങ്ങളുടെ റിസൾട്ടുമായി വന്നിട്ടുണ്ട് എന്നാണ് നിങ്ങൾക്ക് കൈ ഉയർത്താം പിന്നെ മറ്റാരെങ്കിലും അതെ അത് നല്ലതാണ് നിങ്ങൾ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അത് വളരെ മനോഹരമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരു ശ്രമം നടത്തണം നമുക്ക് നോക്കാം സ്പെസിമെൻ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ഫാറ്റീഗ് ക്രാക്ക് ഗ്രോത്തിന്റെ ഉത്ഭവവും പ്ലെയിനും നിയന്ത്രിക്കാൻ ഷെവ്റോൺ നോച്ച് ഉപയോഗിക്കുന്നു ഇവിടെ ഇതാ അതിനാൽ ഇത് എല്ലാ വരികൾക്കും ഉള്ള വിശദീകരണം നൽകുന്നു നിങ്ങൾക്കുള്ള ഈ ചെരിഞ്ഞ വരി ഈ ചെരിഞ്ഞ വരിയെ വിശദീകരിക്കുന്നു ഈ ചെരിഞ്ഞ വരി ഈ വരിയെ വിശദീകരിക്കുന്നു നിങ്ങൾക്കുള്ള തിരശ്ചീന രേഖ എന്തായാലും അത് നിങ്ങളുടെ ചെരിഞ്ഞ വരയാണ് ഇവിടെ അതിന്റെ പ്രയോജനം എന്താണ് ഞാൻ ലോഡ് പ്രയോഗിക്കുമ്പോൾ ഏറ്റവും ദുർബലമായ പോയിന്റ് ഈ കോണാണ് അതിനാൽ ക്രാക്ക് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നു നിങ്ങൾക്ക് ഈ പ്രത്യേക പ്ലെയിൻ ദുർബലമാക്കുന്നു ക്രാക്ക് ആ പ്ലെയിനിനെ പിന്തുടരും അതിനാൽ ക്രാക്കിന്റെ ഉത്ഭവവും ക്രാക്ക് മുന്നേറുന്ന പ്ലെയിനും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനായി നമുക്ക് ഒരു സ്വാഭാവിക ക്രാക്ക് ആവശ്യമാണ് ഷെവ്റോൺ നോച്ചിന്റെ പിക്ടോറിയൽ റെപ്രെസെന്റഷൻ നിങ്ങൾ കണ്ടു ഞാൻ 2 സ്പെസിമെനുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഒരു പെർസ്പെക്സ് തിക്ക് ഷീറ്റിൽ നിർമ്മിച്ച ഒരു ബ്ലോൺ അപ്പ് മോഡലാണ് നിങ്ങൾക്ക് ഇവിടെ ഷെവ്റോൺ നോച്ച് ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് കട്ട് ടോപ്പ് സർഫേസുമുണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ വലുപ്പമുള്ള കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെനുണ്ട് അത് ഞാൻ ക്ലാസിന് നൽകാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഷെവ്റോൺ നോച്ച് എങ്ങനെ നിർമ്മിക്കാമെന്നും അത് എങ്ങനെ കാണപ്പെടുമെന്നും നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനാകും ഫാറ്റീഗ് പ്രീ ക്രാക്കിംഗ് റെസ്ട്രിക്ഷൻസ് ഫാറ്റീഗ് പ്രീ ക്രാക്ക് ലഭിക്കുന്നതിന് ലോഡിംഗ് എങ്ങനെ പ്രയോഗിക്കണം എന്ന നിയന്ത്രണങ്ങളുണ്ട് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള അമിതമായ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒഴിവാക്കണം എന്നതാണ് ഫോക്കസ് കാരണം പ്ലാസ്റ്റിക് സോൺ വളരെ ചെറുതാണെങ്കിലും പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ പ്രീ ക്രാക്കിംഗ് പ്രോസിജ്യർ തെറ്റായി ചെയ്തുകൊണ്ട് നിങ്ങൾ അശ്രദ്ധമായി പ്ലാസ്റ്റിക് സോൺ അവതരിപ്പിക്കരുത് ഫാറ്റിഗ് ക്രാക്ക് ഗ്രോത്തിന്റെ ഏത് ഘട്ടത്തിലും K മാക്സ് KQ നെ കാൾ 0 8 മടങ്ങ് കവിയാൻ പാടില്ല നിങ്ങൾ ഇതിനകം കണ്ടുKQ എന്നത് ഫ്രാക്ചർ ടഫ്നെസ്സ് ക്യാൻഡിഡേറ്റ് ആണ് കാരണം K യുടെ ഉയർന്ന മൂല്യം ഫാറ്റിഗ്സ് ക്രാക്കിനെ ബ്ലാൻന്റ ചെയ്തു ഇത് അൺ കൺസർവേറ്റീവ് ഫ്രാക്ചർ ടഫ്നെസ്സ് മൂല്യങ്ങളിലേക്ക് നയിക്കും മാത്രമല്ല ക്രാക്ക് ലെങ്തിന്റെ അവസാന 2 5 ശതമാനം ലോഡ് ചെയ്യേണ്ടതാണ് K മാക്സ് 0 6 KQ നെക്കാൾ കുറവാണ് കൂടാതെ K മാക്സ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് 0 32 ഗുണം 10 പവർ മൈനസ് 3 റൂട്ട് മീറ്റർറിൽ താഴെയായിരിക്കയും വേണം നിങ്ങൾക്കറിയാം ഇതെല്ലാം വളരെ കർശനമായ നിയന്ത്രണങ്ങളാണെന്ന് വാസ്തവത്തിൽ ഫ്രാക്ചർ ടഫ്നെസ്സ് ടെസ്റ്റിംഗ് നടത്തുന്ന ഒരു വ്യക്തി അത് പാലിക്കേണ്ടതുണ്ട് അസൈൻമെന്റ് പ്രശ്നങ്ങളിലൊന്ന് നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് നൽകുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണക്കുകൂട്ടലുകളിലെങ്കിലും ഈ കണ്ടീഷനുകൾ എങ്ങനെ നടപ്പാക്കാമെന്ന് മനസിലാക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ ഫാറ്റിഗ് പ്രീ ക്രാക്കിംഗിനായി നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ശുപാർശകൾ ഉണ്ട് നിങ്ങൾ അവസാനമായി വിലയിരുത്താൻ പോകുന്ന വാല്യൂവുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ KQ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇവിടെയാണ് വെല്ലുവിളി നിലനിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ മെറ്റീരിയൽ നൽകുമ്പോൾ നിങ്ങൾക്ക് ന്യായമായ ഒരു ഗസ്സ് വർക്ക് ഉണ്ടായിരിക്കണം പരീക്ഷണാത്മക നടപടിക്രമം എന്താണ് പരീക്ഷണാത്മക നടപടിക്രമം പ്രീ ക്രാക്കഡ് സ്പെസിമെൻ ലോഡു ചെയ്യുന്നതിന് നിങ്ങൾ പ്രത്യേക ഫിക്സ്ച്ചറുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് ലോഡിംഗ് നിരക്ക് സെക്കൻഡിൽ 0 55 മുതൽ 2 75 MPa റൂട്ട് മീറ്റർ വരെ നിലനിർത്തണം നിങ്ങൾക്കറിയാമോ ഇത് വളരെ പ്രധാനമാണ് നമ്മുടെ എല്ലാ ചർച്ചകളിലും അത് ക്രമേണ ലോഡുചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇത് എത്ര ഗ്രാജുവൽ ആണ് ഒരു കോഡ് നിങ്ങൾക്ക് റേക്കമെൻറ്റേഷൻ നൽകുന്നു നമുക്ക് ഇത് സെക്കൻഡിൽ 0 55 മുതൽ 2 75 MPa റൂട്ട് മീറ്റർ വരെയാണ് നിങ്ങൾ ലോഡ് ഡിസ്പ്ലേസ്മെന്റ് കർവ് റെക്കോർഡു ചെയ്യണം ഇത് വളരെ പ്രധാനമാണ് അതിൽ നിന്ന് മാത്രമേ ഫ്രാക്ചർ ടഫ്നെസ്സ് നിർണ്ണയിക്കാൻ ആവശ്യമായ പാരാമീറ്ററുകൾ വിലയിരുത്താൻ നമുക്ക് കഴിയൂ ലോഡ് അളക്കുന്നതിനും ഡിസ്പ്ലേസ്മെന്റ് നടത്തുന്നതിനും നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസറുകൾ എന്തുതന്നെയായാലും ഒരു ശതമാനം കൃത്യതയ്ക്കുള്ളിൽ പരമാവധി ലോഡ് നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിൽ അവ തിരഞ്ഞെടുക്കാം പരമാവധി ലോഡ് നിർണയിക്കുന്നതിൽ കാൽകുലേഷൻ ഇറർ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ലോഡിന്റെ വർദ്ധനവ് നിലനിർത്താൻ കഴിയാത്തതുവരെ ഈ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്നു അതായത് പരിശോധനയുടെ അവസാനം സ്പെസിമെൻ ബ്രേക്ക് ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ശരിക്കും നോക്കുന്നത് ലോഡ് ഡിസ്പ്ലേസ്മെന്റ് അളക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ഒരു ക്ലിപ്പ് ഗേജ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ആളുകൾ ക്രാക്ക് മൌത്ത് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് അളക്കുന്നു നിങ്ങളുടെ മറ്റ് ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് നിങ്ങൾക്ക് ലോഡ് ലഭിക്കും മറ്റൊരു ക്ലിപ്പ് ഗേജിൽ നിന്ന് നിങ്ങൾക്ക് ക്രാക്ക് മൌത്ത് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് ലഭിക്കും നിങ്ങൾക്കറിയാമോ ഇവിടെയാണ് ഇത് സ്പെസിമെനിലേക്ക് മൌണ്ട് ചെയ്തിരിക്കുന്നത് ചില വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു ഇത് ഇതുപോലെ മൌണ്ട് ചെയ്യാം അല്ലെങ്കിൽ അതിന് ഷാർപ്പ് വിവൽ തരം എഡ്ജ് ഉണ്ടായിരിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു വിശദാംശമുണ്ടാകും വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ക്ലിപ്പ് ഗേജ് എടുത്ത് ഇതിലേക്ക് ചേർക്കുന്നു ഇത് ക്രാക്ക് മൌത്ത് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് അളക്കും ഫ്രാക്ചറിൽ ലോഡിന്റെ അളവ് ഫ്രാക്ചറിൽ ലോഡ് എങ്ങനെ അളക്കും നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു കർവ് ഉണ്ട് ഇത് ലോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലിനെ ലളിതമാക്കുന്നു ഇതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കുക ആളുകൾ 3 വ്യത്യസ്ത ഇനങ്ങൾ തരംതിരിക്കുന്നു അവർ ഇതിനെ ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 3 എന്നും തരംതിരിക്കുന്നു ഇത് ടൈപ്പ് 1 ഇതാണ് ടൈപ്പ് 3 നമ്മൾ ടൈപ്പ് 2 ഉം കാണും അതിനാൽ എനിക്ക് x ആക്സിസിൽ ക്രാക്ക് മൌത്ത് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് Y ആക്സിസിൽ എനിക്ക് ലോഡ് ഉണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ലോഡ് വർദ്ധിക്കുകയും നിങ്ങൾക്ക് കർവിൽ ഒരു നല്ല കിങ്കും ലഭിക്കും ലോഡിനെ P Q എന്ന് വിളിക്കുന്നു ഇത് ഇത്തരത്തിലുള്ള സ്പെസിമെൻ ബിഹേവിയറിലെ മാക്സിമം ലോഡ് ആണ് നമുക്ക് P വേഴ്സസ് CMOD കർവ് ഉണ്ടായിരിക്കാം ഇതുപോലുള്ള ഒരു കർവ് ആയതിനാൽ നിങ്ങൾക്ക് PQ വിന്റെ മൂല്യം കണ്ടെത്താൻ വ്യക്തമായ ഒരു മാർഗവുമില്ല വാസ്തവത്തിൽഅത് ഉയരുംനിങ്ങൾക്ക് തുടർന്ന് എവിടെയെങ്കിലും P മാക്സ് ലഭിക്കും തുടർന്ന് സ്പെസിമെൻ പരാജയപ്പെടും ഗ്രാഫിന്റെ ആ ഭാഗം കാണിച്ചിട്ടില്ല ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് നോൺ ലീനിയർ തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ 5 ശതമാനം സിക്കന്റ് ലൈൻ നിങ്ങൾ വരയ്ക്കുന്നു എന്താണ് 5 ശതമാനം സിക്കന്റ് ലൈൻ ഇനിഷ്യൽ സ്ലോപ്പിന്റെ 95 ശതമാനം ഉള്ള ഒരു ലൈൻ ആണ് 5 ശതമാനം സിക്കന്റ് ലൈൻ വാസ്തവത്തിൽ എനിക്ക് ആനിമേഷൻ വീണ്ടും ചെയ്യാനാകും ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വ്യക്തമായ കിങ്കും ഐഡന്റിഫിക്കേഷനും ഉള്ള കേസിനാണുള്ളത് വ്യതിയാനം നോൺ ലീനിയർ ആകുമ്പോൾ ഇത് ഇതുപോലെയാണ് നിങ്ങൾ ഈ ലൈൻ വരയ്ക്കുക ഇത് എഡിറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് P Q ന്റെ വാല്യൂ ലഭിക്കും അതിനാൽ ഒരു സബ്സ്ക്രിപ്റ്റ് Q ഉള്ള ഏത് മൂല്യവും കാൻഡിഡേറ്റ് ഫ്രാക്ചർ ടഫ്നെസ്സ് കണ്ടെത്തുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്നു നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് പോപ്പ് ഇൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് നിങ്ങൾ ഇതിനകം ശബ്ദം കേട്ടിട്ടുണ്ട് ചില സ്പെസിമെനുകളിൽ നിങ്ങൾക്ക് ഒരു പോപ്പ് ഇൻ ഫിനോമിനൺ ഉണ്ടാകും അതിനാൽ ഒരു പോപ്പ് ഇൻ ഫിനോമിനൺ ഉണ്ടെങ്കിൽ ഗ്രാഫിന്റെ ആകൃതി ഇതുപോലെയാകും അപ്പോൾ അത് ഉയരും നിങ്ങൾക്ക് ഒരു P മാക്സ് ഉണ്ടാകും കാരണം പോപ്പ് ഇൻ ഫിനോമിനുകളുടെ കാര്യത്തിൽ ഒരു തമ്പ് നെയിൽ ഫാഷനിൽ പെട്ടെന്ന് ഒരു കുതിപ്പ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു മറ്റ് ചില ലോഡ് വർദ്ധനവിന് ശേഷം മാത്രമേ സ്പെസിമെൻ പൂർണ്ണമായും ബ്രേക്ക് ചെയ്യുകയുള്ളൂ ഞാൻ ഇവിടെയും ആനിമേഷൻ ആവർത്തിക്കാം നിങ്ങൾക്ക് പോപ്പ് ഇൻ ശബ്ദം കേൾക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേൾക്കാനാകുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ വീണ്ടും 5 ശതമാനം സിക്കന്റ് ലൈൻ വരയ്ക്കുക എന്നാൽ നിങ്ങൾ ഈ ഷാർപ്പ് ഹൈറ്റിനെ ആണ് P Q ആയി കണക്കാക്കുന്നത് അതിനാൽ ലോഡ് വേഴ്സസ് CMOD ഗ്രാഫ് നേടുന്നതിനുള്ള ആശയം ഫ്രാക്ചർ ടഫ്നെസ്സ് കണ്ടെത്തുന്നതിന് പകരമായി നൽകേണ്ട P യുടെ മൂല്യം എന്താണ് എന്ന് കണ്ടെത്തുക എന്നതാണ് നിങ്ങൾക്കറിയാമോ നമ്മൾ വ്യത്യസ്ത തരം മെറ്റീരിയൽ ബിഹേവിയർ കണ്ടു നിങ്ങൾ ഇതിനെ സ്പെസിമെൻ തിക്നെസ്സിനുള്ള ഒരു പ്രവർത്തനമായും കണ്ടെത്തുന്നു കൂടാതെ ഫ്രാക്ചർഡ് സർഫേസ് പ്രത്യക്ഷപ്പെടുന്ന രീതിയും വ്യത്യസ്തമാണ് എനിക്ക് കംപ്ലീറ്റ് പ്ലെയിൻ സ്ട്രെയിൻ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഫ്രാക്ചർ ഉണ്ടാകും നിങ്ങൾക്കായി ഇത് മാഗ്നിഫൈ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് ഫ്രാക്ചർ ടഫ്നെസ്സ് ഇതുപോലെ വ്യത്യാസപ്പെടുന്നു നിങ്ങൾ കാണുന്നത് പ്ലെയിൻ സ്ട്രെസ് സ്പെസിമെൻസിനായി നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് പ്രോമിനെന്റ് ഷിയർ ലിപ്പുകളാണ് ഒരു ഇന്റർമീഡിയറ്റ് തിക്ക് സ്പെസിമെനിനു അവസാന ക്ലാസിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്നമ്മൾ പ്ലാസ്റ്റിക് സോണിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾതുടക്കത്തിൽ ഇത് ഒരു പ്ലെയിൻ സ്ട്രെയിൻ പോലെ ആയിരുന്നുഎന്നാൽ അവസാനം നിങ്ങൾക്ക് ഇത് ഒരു ഷിയർ ലിപ്പാകും അതിൻറെ കഴിയുന്നത്രയും ഭംഗിയുള്ള സ്കെച്ച് ഉണ്ടാക്കുക നിങ്ങൾ ഒരു തിക്ക് സ്പെസിമെനിലേക്ക് വരുന്ന നിമിഷം നിങ്ങൾക്ക് പ്ലെയിൻ സ്ട്രെയിൻ സിറ്റുവേഷൻ ഉറപ്പാക്കാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് സർഫേസ് ഉണ്ടാകും ഇത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയായി കണക്കാക്കപ്പെടുന്നു പ്ലെയിൻ സ്ട്രെയിൻ അവസ്ഥയിലുള്ള ഫ്രാക്ചർ ടഫ്നെസ്സിന്റെ വാല്യൂ മെറ്റീരിയൽ പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നു തിൻ പാനലുകൾക്കായി നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനാൽ അടിസ്ഥാനപരമായി തിക്നെസ്സ് എന്തായിരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ഈ സോണിൽ തന്നെ നിൽക്കും ഒരു പ്ലെയിൻ സ്ട്രെയിൻ സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് തിക്നെസ്സ് വേണ്ടത്ര വലുതല്ലെങ്കിൽ അതിന് ഇന്റർമീഡിയറ്റ് വാല്യൂ ഉണ്ടായിരിക്കാം ക്രാക്ക് ലെങ്തിന്റെ മെഷർമെന്റും അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയും ഒടുവിൽ സ്പെസിമെൻ തകർന്നുകഴിഞ്ഞാൽ ക്രാക്കിന്റെ ലെങ്ത് എങ്ങനെ അളക്കണം എന്നതിനെക്കുറിച്ചുള്ള ആവശ്യകതകൾ നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്താണ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇവിടെ നിങ്ങൾക്ക് 2 ചിത്രങ്ങളുണ്ട് ഒന്ന് ഒരു രേഖാചിത്രം ആണ് സ്കെച്ച് കാണിക്കുന്നു ഇതാണ് സ്പെസിമെൻ ഇതാണ് ഷെവ്റോൺ നാച്ച് നിങ്ങൾക്ക് ക്രാക്ക് ഫ്രണ്ട് ഉണ്ട് ക്രാക്ക് ഫ്രണ്ട് നിങ്ങൾ എങ്ങനെ കാണുന്നു ക്രാക്ക് ഫ്രണ്ട് സ്ട്രൈയിറ്റ് അല്ല നമ്മൾ നേരത്തെ നോക്കിയ തിക്ക്സ്പെസിമെനുകളിലൂടെ നമ്മൾ അത് ഒരു നേർരേഖയായി ഇട്ടു കാരണം ഇത് ഒരു മോഡൽ മാത്രമാണ് നിങ്ങൾ ഫിസിക്കൽ ആയി ഒരു നാച്ചുറൽ ക്രാക്ക് സൃഷ്ടിക്കുമ്പോൾ ക്രാക്ക് ഈ രീതിയിൽ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യുകയുള്ളൂ അതിനാൽ ഒരു നിയന്ത്രണം എന്തെന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം കർവേച്ചർ സഹിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ക്രാക്കിന്റെ ഗ്രോത്ത് ഫേസ് ഉണ്ട് ഒപ്പം ഒരു ഫ്രാക്ചർ സർഫേസുമുണ്ട് എനിക്ക് ഈ ചിത്രം വലുതാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ഇതൊരു ബ്രോക്കൺ സ്പെസിമെൻ ആണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഷെവ്റോൺ നോച്ച് കാണാൻ കഴിയും ഇവിടെയാണ് നിങ്ങൾക്ക് ഫാറ്റീഗ് ക്രാക്ക് ഗ്രോത്ത് മേഖലയുള്ളത് തീർച്ചയായും ഇത് സ്ട്രൈയിറ്റ് അല്ല ഇതിന് ഒരു കർവേച്ചർ ഉണ്ട് ഷെവ്റോൺ നോച്ചിൽ നിന്ന് പുറത്തുവരുന്ന ഒരു ഭാഗമുണ്ടെന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഷെവ്റോൺ നോച്ച് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഒരു ചെറിയ ദൂരം ഉണ്ട് ഈ അകലങ്ങൾ പോലും കോഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആശ്ചര്യമുണ്ടാക്കും അതല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നില്ല ഇതെല്ലാം ഉണ്ടാകും സ്പെസിമെനിന്റെ ഈ ഭാഗത്ത് നിന്നും പുറത്തുവരുന്ന വാല്യൂ എന്താണ് സ്പെസിമെനിന്റെ ഈ ഭാഗത്ത് നിന്നും പുറത്തുവരുന്ന വാല്യൂ എന്താണ് കർവേച്ചർ ഉള്ള വഴി എന്താണ് ടെസ്റ്റ് സ്വീകരിക്കുന്നതിന് ഈ അളവുകളെല്ലാം അത്യാവശ്യമാണ് അതിനാൽ നിങ്ങൾ ഓരോന്ന് ഓരോന്നായി നോക്കാം ക്രാക്കിന്റെ നീളം അളക്കുന്നതിന് നിങ്ങൾ 3 അളവുകൾ ഇടുന്നു ഒന്ന് സ്പെസിമെനിന്റെ മധ്യഭാഗത്തും ഒരു അളവ് പകുതി മുകളിലേക്കും മറ്റൊന്ന് അളവ് പകുതി താഴെയും ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഇത് a1 a2 a3 എന്നിങ്ങനെ ഉണ്ട് അതിനാൽ ഈ 3 അളവുകളിൽ നിന്ന് നിങ്ങൾക്ക് ക്രാക്ക് ലെങ്ത് a ഈക്വൽ ടു 1 ബൈ 3 a 1 പ്ലസ് a 2 പ്ലസ് a 3 എന്നു കിട്ടും നിങ്ങൾക്ക് എങ്ങനെ അളക്കുമെന്നും അത് സ്വീകരിക്കാമോ ഇല്ലയോ എന്ന് യോഗ്യത നേടണമെന്നും കോഡ് പറയുന്നു ഞാൻ a1 a2 a3 അളക്കുന്നു 3 ക്രാക്ക് സൈസ് അളവുകളിൽ ഏതെങ്കിലും 2 തമ്മിലുള്ള വ്യത്യാസം a യുടെ 10 ശതമാനത്തിൽ കൂടരുത് എന്നാണ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ നോക്കൂ ലോഡ് അളവിന്റെ കാര്യത്തിൽ നമ്മൾ PQ കണ്ടു കൂടാതെ ഒരു P മാക്സും ഉണ്ട് നിങ്ങൾക്ക് ഒരു കിങ്ക് ഉള്ള ഒരു കേസ് ഉള്ളപ്പോൾ മാത്രം ഈ PQ വും P മാക്സും ലയിക്കുന്നു മറ്റ് രണ്ട് കേസുകളിൽP മാക്സ് PQ വിനേക്കാൾ അല്പം കൂടുതലാണ് അവിടെ വീണ്ടും PQ P മാക്സ് വ്യത്യാസം 10 ശതമാനത്തിൽ കൂടരുത് എന്നതാണ് റെക്കമെൻറ്റേഷൻ ഇവിടെ പൊതുവേ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ ക്രാക്ക് ഫ്രണ്ട് ഉണ്ടാകും ഡ്രോയിംഗിൽ ഇത് ലളിതമായ ആർക്ക് ആയി കാണിക്കുന്നു ഇവിടെ ഇത് വ്യത്യസ്തമാണ് അതിനാൽ നിങ്ങൾ a1 a2 a3 അളവുകൾ എടുക്കുമ്പോൾ ഈ അളവുകൾ a യുടെ 10 ശതമാനം കവിയുന്നുണ്ടോ എന്ന് നിങ്ങൾ അവസാനമായി ഉറപ്പാക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഉപേക്ഷിക്കേണ്ടിവരും നിങ്ങൾ പ്രീ ക്രാക്കിംഗ് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അത് പുറത്തുവരുന്ന ദൈർഘ്യം എന്തായിരിക്കണം എന്ന് അറിഞ്ഞിരിക്കണം രണ്ട് സർഫേസുകളിലെ ഷെവ്റോണിൽ നിന്ന് ഫാറ്റീഗ് ക്രാക്ക് ഉ ണ്ടാകുമെന്ന് കോഡ് പറയുന്നു നോക്കൂ സ്പെസിമെൻ ബ്രോക്കൺ ചെയ്തതിനുശേഷം മാത്രമേ നിങ്ങൾ ക്രാക്കിന്റെ ലെങ്ത് കാണൂ നിങ്ങൾ ലോഡിംഗ് ചെയ്യുമ്പോൾ ക്രാക്കിന്റെ ലെങ്ത് അളക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം ഷെവ്റോൺ നോച്ചിനപ്പുറം ക്രാക്ക് മുന്നേറി എന്നു കാണുന്നതിന് നിങ്ങൾക്ക് നോൺ ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് മെഷർമെന്റ ചെയ്യണം അതിനാൽ ഇത് 0 025 അല്ലെങ്കിൽ 1 3 മില്ലിമീറ്റർ ആയിരിക്കണമെന്ന് കോഡ് പറയുന്നു രണ്ടിലും വലുത് നിങ്ങൾ കാണണം പ്രായോഗിക പരിഗണനകളിൽ നിന്ന് ഇത് ശുപാർശ ചെയ്യുന്നു നോക്കൂ ഇതുപോലുള്ള ഒരു ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് ഞാൻ അത്തരം മൈന്യുട്ട് വിശദാംശങ്ങളിൽ പ്രവേശിക്കുന്നത് വാസ്തവത്തിൽ ഞാൻ നിങ്ങൾക്ക് വളരെ മൈന്യുട്ട് വിശദാംശങ്ങൾ നൽകുന്നില്ല കോഡിന്റെ ചില പ്രധാന സവിശേഷതകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അത് തന്നെ അലാർമിങ് ആണ് വളരെയധികം വിശദാംശങ്ങളുണ്ട് നിങ്ങൾ കോഡ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും കോഡ് വ്യക്തമാക്കുന്നു കോഡുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഡൈജസ്റ് ചെയ്യണം തുടർന്ന് നിങ്ങൾ അത് അത് നടപ്പിലാക്കേണ്ടതുണ്ട് ഇത് ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ് അതിനാൽ ഷെവ്റോൺ നോച്ച് അവസാനിക്കുന്നതിനുമുമ്പ് നിങ്ങൾക്ക് ഒരു ക്രാക്ക് നിർത്താൻ കഴിയില്ല എന്നതാണ് ആദ്യത്തെ ആവശ്യകത അത് പുറത്തുവരണംഇത് എത്രമാത്രം പുറത്തുവരണമെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു കൂടാതെ മറ്റൊരു നിയന്ത്രണവുമുണ്ട് അത് വളരെയധികം പുറത്തുവരാൻ പാടില്ല ഇത് പറയുന്നു നിങ്ങൾ ഈ സർഫേസിൽ a1 ഉം മറ്റ് സർഫേസിൽ a2 ഉം അളക്കുകയാണെങ്കിൽ അവ a യുടെ 15 ശതമാനത്തിൽ കൂടുതൽ വ്യത്യാസപ്പെടരുത് a1 മൈനസ് a2 എന്നത് a യുടെ 10 ശതമാനത്തിൽ കൂടരുത് അതിനാൽ ക്രാക്ക് ലെങ്തിന്റെ മെഷർമെന്റ ലളിതമായ ഒരു ജോലിയല്ല ഇത് കോംപ്ലിക്കെറ്റ്ഡ് ആയ ഒരു ടാസ്ക് ആണ് അതിനാൽ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓപ്പറേറ്ററിന് കുറച്ച് സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് സാധ്യമല്ല കാരണം മെറ്റീരിയലുകൾ വളരെ ചെലവേറിയതാണ് പ്ലേറ്റ് സ്റ്റോക്കിൽ നിന്നുള്ള സ്പെസിമെൻ സെലക്ഷൻ അതിനാൽ ഞങ്ങൾ കണ്ടു ഏത് രീതിയിലാണ് തിക്നെസ്സ് അളക്കേണ്ടത്ക്രാക്കിന്റെ ലെങ്ത് അളക്കുക മറ്റൊരു വശം ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിലും ഞാൻ പരാമർശിക്കുന്നുണ്ട് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ഫാഷണിൽ ടെസ്റ്റിംഗ് മെറ്റീരിയൽ അനീസോട്രോപി കൊണ്ടുവന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് സ്റ്റോക്ക് ഉണ്ട് അവിടെ നിങ്ങൾക്ക് L T S ആക്സിസ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം നിർമ്മിക്കുക നിർമ്മാണ പ്രക്രിയയെ ആശ്രയിച്ച് അതിന്റെ ശക്തി വ്യത്യസ്ത ദിശകളിൽ വ്യത്യാസപ്പെടും ലെങ്തിന്റെ ദിശയിൽ ഇത് പുറത്തെടുക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ശക്തി ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും കോഡുകൾ പറയുന്നതെന്തെന്നാൽ പ്ലേറ്റ് സ്റ്റോക്കിൽ നിന്ന് ഉചിതമായ രീതിയിൽ നിങ്ങൾ സ്പെസിമെൻ തിരഞ്ഞെടുക്കണം എന്നതാണ് ഏത് രീതിയിലാണ് സ്പെസിമെൻ അലൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ സ്പെസിമെൻ 1 2 എന്ന് എഴുതുക നിങ്ങൾ അതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കേണം അതിനാൽ സ്പെസിമെൻ 1 ന്റെ കാര്യത്തിൽ ആക്സിസ് T ആയി നൽകുകയും ക്രാക്ക് L ദിശയിലേക്ക് മുന്നേറുകയും ചെയ്യും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും എനിക്ക് ഇവിടെ ക്രാക്ക് ഉണ്ട് ഞാൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ക്രാക്ക് L ദിശയിൽ മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ L ദിശയിലെ ഫ്രാക്ചർ ടഫ്നെസ്സ് ഇത് നിർണ്ണയിക്കപ്പെടും നിങ്ങൾക്ക് സ്പെസിമെൻ 2 ഉണ്ട് അവിടെ ഇപ്പോഴും ആക്സിസ് തുല്യമാണ് സ്പെസിമെൻ 1 പോലെ അത് T ദിശയിലാണ് എന്നാൽ ക്രാക്ക് S ദിശയിൽ മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മുറികളിലേക്ക് തിരികെ പോകണം മറ്റ് കേസുകൾ 3 4 5 6 എന്നിവയ്ക്കായി ചിത്രങ്ങൾ പൂരിപ്പിക്കുക അതിനാൽ നിങ്ങൾക്ക് LT LS ST SL മുതലായവ സംയോജിപ്പിക്കാം ഈ പ്ലേറ്റ് സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഒരു സർഫേസ് ക്രാക്കും കാണിച്ചിരിക്കുന്നു നോക്കൂ പ്ലേറ്റ് സ്റ്റോക്കിൽ നിന്ന് സ്പെസിമെൻ തയ്യാറാക്കുന്ന രീതി കാരണം അതിന്റെ ഫ്രാക്ചർ ടഫ്നെസ്സ് വ്യത്യാസപ്പെടാം ഒരു യഥാർത്ഥ സ്പെസിമെനിൽ എനിക്ക് ഒരു സർഫേസ് ക്രാക്ക് ഉണ്ടെന്ന് കരുതുക അതിന്റെ സവിശേഷതകൾ ദിശയിൽ നിന്ന് ദിശയിലേക്ക് വ്യത്യാസപ്പെടുന്നു വിവിധ ദിശകളിലെ ഫ്രാക്ചർ ടഫ്നെസ്സ് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സർഫേസ് ക്രാക്ക് എങ്ങനെ വളരുമെന്ന് വിലയിരുത്താൻ കഴിയില്ല അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് S T ദിശയ്ക്കുള്ള ടഫ്നെസ്സ് വാല്യൂ L T ദിശയേക്കാൾ 30 മുതൽ 60 ശതമാനം വരെ കുറവായിരിക്കാം അനന്തരഫലമായി ഒരു ഭാഗത്തിന്റെ ക്രാക്കിലൂടെ വളർച്ച കണക്കാക്കുന്നില്ലെങ്കിൽ തെറ്റായി പ്രവചിക്കാം ഇത് ബ്രേക്ക് ക്രൈറ്റീരിയത്തിന് മുമ്പുള്ള ചോർച്ചയിൽ പോലും നമ്മൾ കണ്ടു K വളരെ ഉയർന്നതിനാൽ ഒരു സെമി എലിപ്റ്റിക്കൽ ഫ്ലോ ഒരു സർക്കിളാകാൻ ശ്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞു ആ ക്രാക്ക് കൂടുതൽ നീങ്ങാനും പ്രഷർ വെസ്സലിൽ ഒരു ലീക്ക് സൃഷ്ടിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുശേഷം അത് വശങ്ങളിലേക്ക് നീങ്ങുന്നതിന് മതിയായ സമയം എടുക്കും അതിനാൽ ഇത് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറും ഫ്രാക്ചർ ടഫ്നെസ്സും കൂടിയാണ് നിർണ്ണയിക്കുന്നത് അതിനാൽ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിൽ മെറ്റീരിയൽ അനീസോട്രോപി കൊണ്ടുവരുന്നതിനും ഉചിതമായ സവിശേഷതകൾ കണ്ടെത്തുന്നതിനും നിങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക ഇത് വളരെ സിസ്റ്റമാറ്റിക്കലി ചെയ്തു ചില പ്രധാന സ്റ്റാൻഡേർഡ്സും പ്രാക്റ്റീസുകളും ഇപ്പോൾ നമുക്ക് ചില സ്റ്റാൻഡേർഡ്സുകൾ നോക്കാം ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ്സും പ്രാക്റ്റീസുകളും ഉണ്ട് E 399 06 ന്റെ ചില സവിശേഷതകൾ ഞങ്ങൾ പരിശോധിച്ചു ഈ 06 സൂചിപ്പിക്കുന്നത് സ്റ്റാൻഡേർഡ് പുറത്തിറങ്ങിയ വർഷത്തെയാണ് ഇതിന് നിങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട് നിലവിലെ പതിപ്പ് 2006 ഡിസംബർ 15 ന് അംഗീകരിച്ചു നിങ്ങൾക്ക് ഇതിലെ സംഗ്രഹവും ഉണ്ട് നോട്ട് A3 4 എന്ന ഒരു പ്രത്യേക വിഭാഗം 2007 ഏപ്രിലിൽ എഡിറ്റോറിയലായി തിരുത്തി 2008 ഏപ്രിലിൽ ഒരു ഫിഗർ A4 1 എഡിറ്റോറിയലായി തിരുത്തി യഥാർത്ഥത്തിൽ 1970 ൽ കോഡ് അംഗീകരിക്കപ്പെട്ടു ഞാൻ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്തുകൊണ്ടെന്നാൽ കോഡുകൾ മാറിക്കൊണ്ടിരിക്കും ആളുകൾ കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസ് നൽകുകയും നിലവിലെ ധാരണയ്ക്ക് അനുസൃതമായി അതിനെ ചെറുതായി പരിഷ്ക്കരിക്കുകയും ചെയ്യുന്നു ഒരു കോഡ് വികസിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ അത് അന്ധമായി പിന്തുടരുന്നു എന്നല്ല അത് അങ്ങനെയല്ല ചില ഗവേഷണങ്ങളിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയാൽ ആളുകൾ ശരിയായ പരിഗണനയ്ക്ക് ശേഷം ഒരു മാറ്റം വരുത്തുന്നു നിങ്ങളുടെ കോഡ് E 399 06 എന്നത് മെറ്റാലിക് മെറ്റീരിയലുകളുടെ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് കണ്ടു പിടിക്കാൻ ഉള്ള സ്റ്റാൻഡേർഡ് ടെസ്റ്റ് രീതിയാണ് അതിൽ നിങ്ങൾക്ക് B 645 07 എന്ന റഫറൻസ് ഉണ്ട് 07 എന്നത് അത് അംഗീകരിച്ച വർഷമാണ് അലുമിനിയം അലോയ്കളുടെ ലീനിയർ ഇലാസ്റ്റിക് പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനായുള്ള ഒരു സ്റ്റാൻഡേർഡ് പരിശീലനമാണിത് ഇത് മെറ്റാലിക് മെറ്റീരിയലുകൾക്കുള്ളതാണ് അലുമിനിയം അലോയ്കൾക്കുള്ള ചില റെക്കമെൻറ്റേഷൻസ് ആണിത് നിങ്ങൾക്ക് മറ്റൊരു സ്റ്റാൻഡേർഡ് E 1820 99 ഉണ്ട് ഫ്രാക്ചർ ടഫ്നെസ്സ് അളക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് രീതിയാണിത് ഇത് E 399 ന്റെ ജനറലൈസേഷൻ ആണ് അതിനുശേഷം നിങ്ങൾക്ക് മറ്റൊരു സ്റ്റാൻഡേർഡ് E 1823 96 ഉണ്ട് അത് ഫാറ്റിഗ് ഫ്രാക്ചർ ടെസ്റ്റിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ടെർമിനോളജിയാണ് ഇത് E 616 89 റീപ്ലേയിസ് ചെയ്യുന്നു ഞാൻ ഇതിനകം സൂചിപ്പിച്ചതായി നിങ്ങൾക്കറിയാംഫാറ്റിഗ്ഗും ഫ്രാക്ചറും തമ്മിൽ ചിഹ്നങ്ങളുടെ ഓവർലാപ്പ് ഉണ്ട് അതിനാൽ ആളുകൾ ഈ പ്രശ്നം നോക്കുകയും ആ അളവുകൾ ഏത് രീതിയിൽ റഫർ ചെയ്യണമെന്ന് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുകയും ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ ഒരു സ്റ്റാൻഡേർഡ് വികസിപ്പിക്കുമ്പോഴെല്ലാം അത് ആളുകളെ ആകർഷിക്കുന്നതിനായി കുറച്ച് സമയമെടുക്കും അത് ഉടനടി സംഭവിക്കുന്നില്ല കൂടാതെ ഈ ചില സ്റ്റാൻഡേർഡ്സിന്റെ സവിശേഷതകളും നമുക്ക് നോക്കാം ഞാൻ എല്ലാ സ്റ്റാൻഡേർഡ്സും നൽകിയിട്ടില്ല തിരഞ്ഞെടുത്ത കുറച്ച് മാത്രമാണ് ഞാൻ എടുത്തത് സ്റ്റാൻഡേർഡ് E 399 06 ന്റെ സവിശേഷതകൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വാലിഡ് ആയ ഒരു ടെസ്റ്റ് ഉറപ്പുനൽകാൻ കഴിയാത്ത അസാധാരണമായ ഒരു സ്റ്റാൻഡേർഡ്സ് ആണിത് നമ്മൾ അത് കണ്ടതാണ് K Q നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ സ്പെസിമെൻ ഡൈമെൻഷൻസ് ക്രാക്ക് ലെങ്ത് പ്രീ ഫാറ്റിഗ് ക്രാക്കിംഗ് റെസ്ട്രിക്ഷൻ എന്നിവയിൽ K Q നിങ്ങളുടെ എല്ലാ റെസ്ട്രിക്ഷൻസും നിറവേറ്റുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ ഫ്രാക്ചർ ടഫ്നെസ്സ് എന്ന് വിളിക്കുന്നു അതിനാൽ ആ കാഴ്ചപ്പാടിൽ നിന്ന് ഇത് വളരെ അസാധാരണമായ ഒരു മാനദണ്ഡമാണ് എന്താണ് നമ്മൾ രേഖപ്പെടുത്തിയത് നമ്മൾ രണ്ട് പാരാമീറ്ററുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതിലൊന്നാണ് റിമോട്ടലി അപ്പ്ലൈഡ് ലോഡ് P ക്ലിപ്പ് ഗേജ് ഉപയോഗിച്ച് അളക്കുന്ന ക്രാക്ക് മൌത്ത് ഡിസ്പ്ലേസ്മെന്റ് അതിനാൽ ആത്യന്തികമായി നമ്മൾ എടുക്കുന്ന രണ്ട് അളവുകൾ ഇവയാണ് എന്നാൽ തുടക്കത്തിൽ ഒരു നാച്ചുറൽ ക്രാക്ക് സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ ഒരു ഫാറ്റിഗ് ലോഡിംഗ് ചെയ്യണം മോണോടോണിക് ലോഡിംഗ് ഉപയോഗിച്ചാണ് യഥാർത്ഥ പരിശോധന നടത്തുന്നത് നിങ്ങൾ അവിടെയുള്ള ഫോഴ്സിനെ സൈക്ലിക്കലി വ്യത്യാസപ്പെടുത്തരുത് നിങ്ങൾ മോണോടോണിക്ക് ആയി ക്രമേണ പ്രയോഗിക്കുക എത്ര ക്രമേണ ആക്കണം എന്ന് കോഡ് നിർദ്ദേശിക്കുന്നു പരിഗണിക്കുന്ന എല്ലാ സ്പെസിമെനുകളും പൂർണ്ണമായും പരാജയപ്പെടണം എന്നും നിങ്ങൾ ശ്രദ്ധിക്കണം ടെസ്റ്റ് ഇൻവാലിഡ് ആണെന്നു കരുതിയാൽ അതൊരു സാധ്യതയാണ് കാരണം ടെസ്റ്റ് അന്തിമമാകുമെന്ന് ഇത് ഉറപ്പുനൽകുന്നില്ല വാലിഡായ ഒരു ടെസ്റ്റിന്റെ എല്ലാ സ്റ്റാൻഡേർഡ്സും പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ടെസ്റ്റുകൾക്കായി 50 ശതമാനം തിക്നെസ്സ് ഉള്ള ഒരു സ്പെസിമെൻ ഉപയോഗിച്ച് പരിശോധന ആവർത്തിക്കണമെന്ന് സ്റ്റാൻഡേർഡ് നിർദ്ദേശിക്കുന്നു തിക്നെസ്സ് അടിസ്ഥാനമാക്കി മറ്റെല്ലാ ഡൈമെൻഷൻസും ഫിക്സ് ചെയ്യുന്നു അതിനാൽ ഇത്തരത്തിൽ തിക്നെസ്സ് മാറ്റുകയും ടെസ്റ്റ് വീണ്ടും ചെയ്യുകയും വേണം അതിനാൽ നിങ്ങൾക്ക് E 399 ൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് B645 07 സ്റ്റാൻഡേർഡ് പ്രാക്ടീസിന്റെ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗ് പ്രധാനമായും E 399 അനുസരിച്ചാണ് നടത്തുന്നത് മൂന്ന് പ്രധാന മേഖലകളിലെ അലുമിനിയം അലോയ്കളുടെ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് അനുബന്ധ വിവരങ്ങൾ ഇത് നൽകുന്നു ഒരു തരം റിലാക്സേഷൻ ആണ് അതായത് നിങ്ങൾ ഒരു പരിശോധന നടത്തുന്ന നിങ്ങളുടെ എല്ലാ ഫലങ്ങളും പുറത്തുവിടരുത് ഈ പരിശീലനം നോക്കിയത് ചില ഫലങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമോ എന്നതാണ് മൂന്ന് പ്രധാന മേഖലകൾ സ്പെസിമെൻ സാമ്പിൾ സ്പെസിമെൻ സൈസ് സെലക്ഷൻ ടെസ്റ്റ് രീതി E 399 ലെ വാലിഡിറ്റി റെപ്രെസെന്റഷന്റെ ഫൈയിൽ ആകുന്ന റിസൾട്ടിന്റെ ഇന്റർപ്രെറ്റേഷൻസ് എന്നിവ ഇനിപ്പറയുന്ന മേഖലകളിലൊന്നിൽ വാലിഡായ റിസൾട്ടിന്റെ റിലീസിന് ഉപയോഗപ്രദമാണോ എന്ന് നിർണ്ണയിക്കുന്നു അതിനാൽ ഇത് പ്രധാനമായും ഒരു പരീക്ഷണത്തെ എങ്ങനെ രക്ഷപ്പെടുത്താനാകും എന്നതാണ് ഏതെല്ലാം മേഖലകളാണെന്ന് നമുക്ക് നോക്കാം ഈ P മാക്സ് ഡിവൈഡഡ് ബൈ P Q റിക്വയർമെൻറ്സ് തൃപ്തിപ്പെടുത്തുന്നതിൽ ഒരു പിശക് ഉണ്ടെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും എന്താണ് സ്പെസിമെൻ സൈസ് റിക്വയർമെൻറ്സ് ഒപ്പം എന്താണ് ഫാറ്റിഗ് പ്രീ ക്രാക്കിംഗ് റിക്വയർമെൻറ്സ് അതിനാൽ കണ്ടിഷൻസ് പൂർണ്ണമായും പാലിച്ചില്ലെങ്കിൽ അവയിൽ ചിലത് അംഗീകരിക്കുന്നതിന് ഇത് മറ്റോരു വഴി നൽകുന്നു നിങ്ങൾ സംക്ഷിപ്തമായി നിരസിക്കുന്നു എന്നല്ല ടെസ്റ്റ് ഡാറ്റ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വഴിയുണ്ടോ ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് E 1820 99 ന്റെ സവിശേഷതകൾ നോക്കാം അഡിഷണൽ ഇൻസ്ട്രുമെന്റേഷന്റെ ചെലവിലും ടെസ്റ്റ് നടപടിക്രമത്തിലെ ചില വർദ്ധിച്ച സങ്കീർണ്ണതയും പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ഒരു ഉചിതമായ പാരാമീറ്റർ അല്ലാത്തപ്പോഴും ഇത് ഫ്രാക്ചറിന്റെ അഡിഷണൽ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങൾ നൽകുന്നു നോക്കൂ ഇത് പ്രധാനമായും ടെസ്റ്റ് ചെലവേറിയതു കൊണ്ടാണ് നിങ്ങൾ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ E 399 പോലുള്ള ഒരു ടെൻഷൻ ടെസ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ധാരാളം നടപടിക്രമങ്ങൾ ഇതിനുണ്ട് സംശയമില്ല ഇത് ചെലവേറിയതാണ് എന്നാൽ പരിശോധനയുടെ അവസാനം നിങ്ങളുടെ ജിയോമെട്രിക് പാരാമീറ്ററുകൾ ശരിയല്ലെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ അത് നിരസിക്കുക അത് ഒഴിവാക്കാൻ നിങ്ങൾ ഒരു വില നൽകണം നിങ്ങൾ ഇവിടെ നൽകുന്ന വില അഡിഷണൽ ഇൻസ്ട്രുമെന്റേഷനും ടെസ്റ്റ് നടപടിക്രമത്തിലെ വർദ്ധിച്ച സങ്കീർണ്ണതയാണ് നമ്മൾ ടെസ്റ്റ് നടപടിക്രമത്തിലേക്ക് കടക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ കോഡ് ഇ 1820 ലേക്ക് പോകണം CTOD J ഇന്റഗ്രൽ പോലുള്ള മറ്റ് പാരാമീറ്ററുകൾ റിപ്പോർട്ടു ചെയ്യാൻ സ്റ്റാൻഡേർഡ് അവസരം നൽകുന്നു അതിനാൽ ഇവ എലാസ്റ്റോപ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന് വേണ്ടിയുള്ളതാണ് അതിനാൽ നിങ്ങൾ ഉപേക്ഷിക്കരുത് പരിശോധനയിൽ നിന്ന് മറ്റ് ഫ്രാക്ചർ പാരാമീറ്ററുകൾ നേടാൻ നമുക്ക് ശ്രമിക്കാം സ്റ്റാൻഡേർഡ് E 1823 96 ന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം ഇത് ഫാറ്റിഗിന്റെയും ഫ്രാക്ചർ ടെസ്റ്റിംഗിന്റെയും പദാവലിയെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയി സംയോജിപ്പിക്കുന്നു ഇതിന്റെ ഉപയോഗപ്രദമായ വശം എന്തെന്നാൽ കാലക്രമേണ ലിറ്ററേച്ചറിൽ പ്രത്യക്ഷപ്പെട്ട സ്പെസിമെൻ ടൈപ്പ്സിന്റെ നിരവധി ഷോർട്ട് ഹാൻഡ് നൊട്ടേഷനുകളുടെ Short Hand Notationsസ്റ്റാൻഡേർഡൈസേഷനാണ് ഇത് നമ്മൾ CCT കണ്ടു നമ്മൾ SEN കണ്ടു എന്നാൽ സ്പെസിമെനുകളെ എങ്ങനെ ലേബൽ ചെയ്യാമെന്നതിനെക്കുറിച്ച് അവർ വ്യത്യസ്തമായ ഒരു റേക്കമെൻറ്റേഷൻ നൽകുന്നു കോഡിഫൈഡ് സിസ്റ്റം സ്പെസിമെൻ ടൈപ്പ് ലോഡിംഗ് മെറ്റീരിയൽ ഓറിയന്റേഷൻ എന്നിവ ഒരു ഓപ്ഷണൽ പ്രീഫിക്സിനോട് കൂടെ വിവരിക്കുന്നു നിങ്ങൾ ഉദാഹരണങ്ങൾ കാണുകയാണെങ്കിൽ ഈ കോഡിന്റെ എസ്സെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ നിങ്ങൾക്ക് ബ്രാക്കറ്റ് T യിൽ SE പോലുള്ള എന്തെങ്കിലും ഉണ്ടാകും അതിനാൽ ഇത് ടെൻസൈൽ ലോഡിംഗുള്ള ഒരു സിംഗിൾ എഡ്ജ്ഡ് സ്പെസിമെൻ ആണ് അല്ലാതെ മറ്റൊന്നുമല്ല എനിക്ക് SE B ഉള്ളപ്പോൾ ഇത് ബെൻഡിങ് ലോഡിംഗുള്ള സിംഗിൾ എഡ്ജ്ഡ് സ്പെസിമെൻ ആണ് നിങ്ങൾക്ക് ഒരു പ്രിഫിക്സ് ഉണ്ട് ഇത് ഒരു DB സ്പെസിമെൻ ആണ് നമുക്ക് ടെൻഷനു വിധേയമായ ഡബിൾ കാന്റിലിവർ ബീം സ്പെസിമെൻ ആണുള്ളത് എന്തുകൊണ്ടാണ് ഇത് കോൺടൂർഡ് നമ്മൾ കണ്ടു നിങ്ങൾക്ക് ഒരു കോൺസ്റ്റൻറ് K വേണമെങ്കിൽ സ്പെസിമെനിന്റെ ഉയരം വ്യത്യാസപ്പെടുന്ന ഒരു സ്പെസിമെൻ നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഇത് സൂചിപ്പിക്കുന്നതിന് ഇതിനെ കോൺടൂർഡ് DB T ആയി കണക്കാക്കുന്നു ഇത് മാത്രമല്ല പുറത്തെടുത്ത സ്പെസിമെനിന്റെ ദിശയും അവർ കൊണ്ടുവരുന്നു മാത്രമല്ല കൂടാതെ എനിക്ക് CT സ്പെസിമെനുമുണ്ട് നിങ്ങൾ ഇത് C T എന്ന് ഇടരുത് C ബ്രാക്കറ്റ് T ആയി നിങ്ങൾ ഇടു നിങ്ങൾക്ക് ബ്രാക്കറ്റുകളിൽ S ഹൈഫൻ T ഉണ്ട് അതിനാൽ ഇത് പ്ലേറ്റ് സ്റ്റോക്കിൽ നിന്ന് എടുത്ത S T ടൈപ്പ് സ്പെസിമെൻ ആണ് നിങ്ങൾക്ക് ഈ CW ഉണ്ട് അത് സർഫേസ് ക്രാക്ക് ആണ് അതാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് LT നിർദ്ദേശത്തിനായി ഇത് ഉണ്ട് ചില സാമ്പിൾ ഇതൊരു മിഡിൽ ക്രാക്കാണ് അതിനർത്ഥം നിങ്ങൾ പറഞ്ഞ C C T സ്പെസിമെൻ അവർ ഇത് ടെൻഷന് വിധേയമായ ഒരു മിഡിൽ സ്പെസിമെൻ മിഡിൽ ക്രാക്കഡ് സ്പെസിമെൻ എന്നാണ് പറഞ്ഞത് ഇത് പാർട്ട് ത്രൂ സർഫേസ് ക്രാക്ക് P S T S ഹൈഫൻ L ആണ് ക്ഷമിക്കണം ഇവിടെ C W ആണ് വെഡ്ജ് ലോഡിംഗിന് വിധേയമായ കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ T ടെൻസൈൽ ലോഡിംഗിനെ സൂചിപ്പിക്കുന്നു B ബെൻഡിങ് ലോഡിനെ സൂചിപ്പിക്കുന്നു W വെഡ്ജ് ലോഡിംഗിനെ സൂചിപ്പിക്കുന്നു M മിഡ്ഡിൽ ക്രാക്കിനെ സൂചിപ്പിക്കുന്നു അത് സെന്റർ ക്രാക്ക് സ്പെസിമെൻ ആണ് പാർട്ട് ത്രൂ സർഫേസ് ക്രാക്കിനെ P S സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് ഒരു സാമ്പിൾ പോലെയാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ അറിയേണ്ടിവരും ഈ കോഡുകൾ പിന്തുടരുന്ന ഒരു പേപ്പർ നിങ്ങൾ എടുത്ത് സ്പെസിമെനിനെ അബ്ബ്റിവേറ്റ് ചെയ്യുന്നുവെന്ന് കരുതുക ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള കോഴ്സിൽ നിങ്ങൾ ഇത് ഇതിനകം കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കോഡ് നൽകുന്ന വളരെ രസകരമായ മറ്റൊരു റേക്കമെൻറ്റേഷൻ ഉണ്ട് ആരും അത് പിന്തുടരുന്നതായി തോന്നുന്നില്ല ഓപ്പണിംഗ് ഇൻ പ്ലെയിൻ ഷിയർ ഔട്ട് ഓഫ് പ്ലെയിൻ ഷിയർ മോഡുകൾ എന്നിവ സൂചിപ്പിക്കുന്നതിന് അറബിക്ക് സബ്സ്ക്രിപ്റ്റുകൾ ആയ 1 2 3 ഉപയോഗിക്കാൻ ഇത് റേക്കമെൻറ്റ് ചെയ്യുന്നു എന്നാൽ മിക്ക പുസ്തകങ്ങളും I II III എന്നീ റോമൻ അക്കങ്ങൾ പിന്തുടരുന്നു അതാണ് ഈ കോഴ്സിലും സ്വീകരിക്കുന്നത് അതിനാൽ ഈ ക്ലാസ്സിൽ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിന്റെ സവിശേഷതകൾ നമ്മൾ പരിശോധിച്ചു അടിസ്ഥാനപരമായി നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് നോക്കി നമ്മൾ ഷെവ്റോൺ നോച്ച് നോക്കി ഒരു യഥാർത്ഥ സ്പെസിമെൻ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് ആശയം നൽകിയ സ്പെസിമെനും നമ്മൾ പരിശോധിച്ചു പിന്നെക്രാക്ക് എങ്ങനെ അളക്കാം എന്നതും നമ്മൾ നോക്കി ഇതിനോട് അറ്റാച്ച് ചെയ്ത റേക്കമെൻറ്റേഷൻസ് എന്തൊക്കെയാണ് ലോഡ് എങ്ങനെ അളക്കാം ആ മൂല്യങ്ങൾ നിങ്ങൾ എങ്ങനെ റിപ്പോർട്ടു ചെയ്യും ഒടുവിൽ ഒരു പ്ലേറ്റ് സ്റ്റോക്കിൽ നിന്ന് നിങ്ങൾ സ്പെസിമെൻസ് പുറത്തെടുക്കുന്ന രീതിയും നമ്മൾ പരിശോധിച്ചു ഫ്രാക്ചർ ടെസ്റ്റിംഗിൽ പ്രാധാന്യമുള്ള തിരഞ്ഞെടുത്ത കുറച്ച് സ്റ്റാൻഡേർഡ്സും നമ്മൾ നോക്കി നിരവധി സ്റ്റാൻഡേർഡ്സും ലഭ്യമാണ് തിരഞ്ഞെടുത്ത കുറച്ച് സ്റ്റാൻഡേർഡ്സും അവയുടെ സവിശേഷതകളും നമ്മൾ പരിശോധിച്ചു